ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓപ് ആമ്പ് ന് വെർച്യുൽ ഷോർട്ട് സവിശേഷത ഉണ്ടാവണമെങ്കിൽ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കണം എന്ന് യഥാർത്ഥ ഓപ് ആമ്പുകൾ ഉപയോഗിക്കുമ്പോൾ പോലും ഓപ് ആമ്പുകളുടെ ഗെയിൻ നിശ്ചിതം ആകുന്ന ഘട്ടത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ മാത്രമാണ് ഇൻപുട്ടുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം വളരെ ചെറിയ മൂല്യത്തിലേക്ക് കേന്ദ്രീകൃതം ആകുന്നത് യഥാർത്ഥ ഓപ് ആമ്പുകളിൽ ഇത് പൂജ്യത്തിലേക്ക് കേന്ദ്രീകൃതം ആകും രണ്ട് സാഹചര്യങ്ങളിലും ഗെയിൻ പരിമിതമാണെങ്കിലും അനന്തം ആണെങ്കിലും ഓപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ ആ വ്യത്യാസം അനന്തതയിലേക്ക് വ്യതിചലിക്കും അതിനാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട് അതായത് ഒരു വളരെ ലളിതമായ അൽഗോരിതം ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചത് വെർച്യുൽ ഷോർട്ട് ആശയം അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും സർക്യൂട്ട് ആണോ എന്ന് പരിശോധിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് ഇൻപുട്ട് ചിഹ്നങ്ങൾ ഒന്നും നിർണ്ണയിക്കാതെ തന്നെ ചെയ്യാൻ കഴിയും എന്നാൽ അതിനു ശേഷം ഓപ് ആമ്പിനെ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആക്കേണ്ട ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം ഇതിനായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ആദ്യം അൽഗോരിതം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും അതിനുശേഷം ഇത് ഒരു ഓപ് ആമ്പ് സർക്യൂട്ടിൽ പ്രയോഗിക്കും വാസ്തവത്തിൽ ഇതുവരെ നമുക്ക് ഒരേയൊരു ഓപ് ആമ്പ് സർക്യൂട്ടാണ് അറിയുന്നത് ഞാൻ അതിലേക്ക് ആണ് പ്രയോഗിക്കാൻ പോകുന്നത് അതിനാൽ നമുക്ക് ഒരു ഓപ് ആമ്പിനെ പരിഗണിക്കാം ഞാൻ ഇതിൻറെ ടെർമിനലുകളെ പ്ലസ് നും മൈനസ് നും പകരം A യും B യും ഉപയോഗിച്ച് അടയാളപ്പെടുത്തട്ടെ നമുക്ക് പറയാം ഈ സർക്യൂട്ടിനു ധാരാളം ഇൻപുട്ടുകൾ ഉണ്ട് ഞാൻ രണ്ടു ഇൻപുട്ടുകൾ ആണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാകാം പിന്നെ ഇത് ഏതോ സർക്യൂട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ഓപ് ആമ്പിനു വേണ്ടിയാണ് നമ്മൾ ചിഹ്നങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനാൽ അവിടെ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണ് പിന്നെ തീർച്ചയായും നമ്മൾ അനുമാനിക്കാൻ പോകുന്നത് ഇതിൻറെ ബാക്കി ഒരു ലീനിയർ സർക്യൂട്ടാണ് എന്നാണ് ഇതാണ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് പിന്നെ ഇതാണ് ഓപ് ആമ്പിൻറെ വോൾട്ടേജ് വ്യത്യാസം VAB അതിനാൽ ഇപ്പോൾ ഫീഡ്ബാക്ക് എന്നത് സൂചിപ്പിക്കുന്നത് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിൻറെ എത്ര അംശമാണ് അതിൻറെ തന്നെ ഇൻപുട്ടിലേക്ക് വരുന്നത് എന്നാണ് അതുതന്നെയാണ് നമുക്ക് നിർണ്ണയിക്കേണ്ടതും അപ്പോൾ അത് ചെയ്യുന്നതിനായി ഞാൻ ഇനിപ്പറയുന്നവ ചെയ്യട്ടെ ഞാൻ ഓപ് ആമ്പിനെ നീക്കം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതായിരുന്നു ടെർമിനൽ A ഇത് ടെർമിനൽ B ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ളത് വോൾട്ടേജിൻറെ എത്ര അംശം ആണ് ഇതിൻറെ ഇൻപുട്ടിലേക്ക് തിരികെ വരുന്നത് എന്നാണ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നിടത്ത് ഞാനൊരു ഒരു VTEST പ്രയോഗിക്കട്ടെ അപ്പോൾ ഇതാണ് ആദ്യത്തെ ചുവട് യഥാർത്ഥ സർക്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് എന്തെന്നാൽ ഞാൻ ഓപ് ആമ്പിനെ നീക്കം ചെയ്തതിനുശേഷം ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് എവിടെയായിരുന്നോ അവിടെ ചില പരീക്ഷണ വോൾട്ടേജ് VTEST ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചു ഇപ്പോൾ ഈ VAB എന്താണ് ആകാൻ പോകുന്നത് നമുക്ക് ലീനിയർ സർക്യൂട്ടുകളെ പറ്റി അറിയുന്നതെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഈ VAB എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ എല്ലാ ഉറവിടങ്ങളുടെയും അതായത് സ്വതന്ത്രമായ എല്ലാ ഉറവിടങ്ങളുടെയും രേഖീയ സംയോജനം ആയിരിക്കും ഈ വിചിത്ര ആകൃതിയിലുള്ള പെട്ടി ഉപയോഗിച്ച് കാണിച്ചിട്ടുള്ള ഈ സർക്യൂട്ട് ആണ് ലീനിയർ സർക്യൂട്ട് അതിനാൽ അതിൻറെ ഉള്ളിൽ സ്വതന്ത്രമായ ഉറവിടങ്ങൾ ഒന്നുംതന്നെയില്ല എല്ലാ സ്വതന്ത്ര ഉറവിടങ്ങളും പുറത്താണ് കാണിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തന്നത് രണ്ടെണ്ണം ഉള്ള സാഹചര്യം ആണ് എന്നാൽ നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം വച്ച് വേണമെങ്കിലും സാമാന്യവൽക്കരിക്കാം ഈ VAB എന്നുള്ളത് α×VTEST β×V1 γ×I2 അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ ഈ രേഖീയ സംയോജനം തുടരും ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആകുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പ്രത്യേക സംഖ്യ ആയ α മാത്രം നോക്കിയാൽ മതി അതായത് ഔട്ട്പുട്ടിൻറെ എത്ര അംശം ആണോ ഇൻപുട്ടിലേക്ക് തിരികെ വരുന്നത് അതാണ് ഫീഡ്ബാക്ക് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് V1 ൻറെ എത്ര ഭാഗം VAB യിൽ വരുന്നു എന്നതിനോ I2 ൻറെ എത്ര ഭാഗം VAB യിൽ വരുന്നു എന്നതിനോ ഇതിൽ ഒന്നും ചെയ്യാനില്ല ഓപ് ആമ്പിൻറെ സ്വന്തം ഔട്ട്പുട്ടിൻറെ എത്ര ഭാഗമാണ് ഇൻപുട്ടിലേക്ക് വരുന്നതെന്ന് മാത്രമാണ് നോക്കേണ്ടത് അതിനാൽ ഓപ് ആമ്പിൻറെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിലുള്ള ആനുപാതിക സ്ഥിരാങ്കം α ആണ് ഇതു മാത്രമാണ് നമ്മുടെ വിഷയം നമ്മൾ ഇതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ടതില്ല ഇപ്പോൾ നമുക്ക് ഇവയെപ്പറ്റി വേവലാതിപ്പെടേണ്ടതില്ലാത്തതിനാലും സർക്യൂട്ട് ലീനിയർ ആയതിനാലും അതായത് സൂപ്പർപൊസിഷൻ നിലനിൽക്കുന്നു എന്നതിനാൽ V1 ൻറെയും I2 ൻറെയും മൂല്യങ്ങൾ ഈ α യെ ബാധിച്ചിട്ടില്ല ഉദാഹരണത്തിന് ഈ മുഴുവൻ കാര്യത്തിൻറെയും വിശകലനത്തിന് ഉള്ള ഒരു മാർഗം ഇതായിരിക്കും ആദ്യം V1 നെയും I2 നെയും പൂജ്യം ആക്കി വയ്ക്കുക എന്നിട്ട് VTEST ൻറെ ഫലം നോക്കുക പിന്നീട് VTEST നെയും I2 നെയും പൂജ്യം ആക്കി വയ്ക്കുക എന്നിട്ട് V1 ൻറെ ഫലം നോക്കുക അവസാനമായി VTEST നെയും V1 നെയും പൂജ്യം ആക്കി വയ്ക്കുക എന്നിട്ട് I2 ൻറെ ഫലം നോക്കുക ഇപ്പോൾ എനിക്ക് V1 ൻറെയും I2 ൻറെയും സംഭാവനകളിൽ താല്പര്യമില്ല അതിനാൽ എനിക്ക് V1 ഉം I2 ഉം പൂജ്യം ആക്കി വയ്ക്കാം അതിനാൽ ഞാൻ എല്ലാ സ്വതന്ത്ര ഉറവിടങ്ങളെയും തീർച്ചയായും VTEST ഒഴികെയുള്ളവ പൂജ്യം ആക്കി നിജപ്പെടുത്തും കാരണം എനിക്ക് ഇതിൻറെ മുഴുവൻ പ്രവർത്തനത്തിൽ താല്പര്യമില്ല എനിക്ക് α യുടെ മൂല്യത്തിൽ മാത്രമാണ് താല്പര്യം അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുക എൻറെ കയ്യിൽ V1 ഉണ്ട് ഞാൻ അതിനെ V10 ആക്കി വെച്ചു അതായത് ഞാൻ അതിനുപകരം ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ചു അതുപോലെ എൻറെ കയ്യിൽ I2 ഉണ്ട് ഞാൻ അതിനെ I20 ആക്കി വെച്ചു അതായത് ഞാൻ അതിനുപകരം ഒരു ഓപ്പൺ സർക്യൂട്ട് ഉപയോഗിച്ചു ഇത് ചെയ്തതിനുശേഷം ഒരു കാര്യം സ്പഷ്ടമാണ് അതായത് VAB എന്നുള്ളത് α × VTEST മാത്രം ആയിരിക്കും കാരണം V1 പൂജ്യമാണ് I2 പൂജ്യമാണ് പിന്നെ കൂടുതൽ സ്വതന്ത്ര ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവയെല്ലാം പൂജ്യം ആക്കി വെക്കും അതിനാൽ എനിക്ക് ആകെ ചെയ്യേണ്ടത് ഒരൊറ്റ ഉറവിടം മാത്രമുള്ള ലീനിയർ സർക്യൂട്ട്ൻറെ വിശകലനമാണ് അത് പൊതുവെ വളരെ ലളിതമായിരിക്കും ഇപ്പോൾ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിർണ്ണയിക്കാൻ ഞാൻ ചെയ്യേണ്ടത് α യുടെ ചിഹ്നം നോക്കുക എന്നതുമാത്രമാണ് ഞാൻ വോൾട്ടേജ് ഉറവിടം V1 നു പകരം ഷോർട്ട് സർക്യൂട്ടും കറണ്ട് ഉറവിടം I2 നു പകരം ഓപ്പൺ സർക്യൂട്ടും വച്ചു ഞാൻ ഈ സർക്യൂട്ട് VTEST മാത്രമുപയോഗിച്ച് വിശകലനം ചെയ്തപ്പോൾ VAB എന്നുള്ളത് α×VTEST എന്നാണ് കിട്ടിയത് ഓപ് ആമ്പിന് ചുറ്റും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളപ്പോൾ താഴെ പറയാൻ പോകുന്നവയാണ് ഞാൻ ചെയ്യേണ്ടത് α പൂജ്യത്തിനെക്കാൾ വലുതാണെങ്കിൽ A നെഗറ്റീവ് ടെർമിനൽ ആയും B പോസിറ്റീവ് ടെർമിനൽ ആയും നിർണ്ണയിക്കണം കാരണം ഈ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് ഓപ് ആമ്പ് അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം A നെഗറ്റീവ് ടെർമിനലാണ് പിന്നെ B പോസിറ്റീവ് ടെർമിനലാണ് പിന്നെ ഇത് VAB ആണ് എന്ന് ഇപ്പോൾ VAB എന്നത് ഒരു പോസിറ്റീവ് സംഖ്യ x VTEST ആണ് ഞാൻ അനുമാനിച്ചത് α പൂജ്യത്തിനെക്കാൾ വലുതാണ് എന്നാണ് നമ്മൾ ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിർണ്ണയിച്ച രീതി അനുസരിച്ച് ഓപ് ആമ്പിൻറെ ഇൻപുട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം Vd ആണ് അത് VAB ആണ് അത് α ×VTEST ആണ് α പോസിറ്റീവ് ആയതു കൊണ്ട് എനിക്ക് VTEST ൻറെ ഒരു നെഗറ്റീവ് ഗുണനം ആണ് ലഭിക്കുന്നത് അതായത് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് എന്ത് തന്നെയാണെങ്കിലും അത് ഒരു നെഗറ്റീവ് സംഖ്യ വച്ച് ഗുണിക്കപ്പെടുകയും പിന്നെ അത് ഇന്പുട്ടിലേക്ക് പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം Vd എന്നുള്ളത് ഒരു നെഗറ്റീവ് സംഖ്യ x ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് ആകുമ്പോൾ ഓപ് ആമ്പ് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കും അതൊരു പോസിറ്റീവ് സംഖ്യ x ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഓപ് ആമ്പ് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ആയിരിക്കും ഇത് വ്യക്തമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഉദാഹരണം ഞാൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും ഇപ്പോൾ ഇതിന് സമാനമായി α പൂജ്യത്തിനെക്കാൾ വളരെ ചെറുതാണെങ്കിൽ A പോസിറ്റീവ് ടെർമിനൽ ആയും B നെഗറ്റീവ് ടെർമിനൽ ആയും നിർണ്ണയിക്കേണ്ടിവരും എൻറെ അന്തിമ ലക്ഷ്യം ഇതാണ് അതായത് ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് വ്യത്യാസം Vd ഔട്ട്പുട്ടിൻറെ ഒരു നെഗറ്റീവ് ഗുണനം ആയിരിക്കണമെന്ന് ഇപ്പോൾ VTEST എന്ന ഈ വോൾട്ടേജ് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഇങ്ങനെ സംഗ്രഹിക്കാം അതായത് നെഗറ്റീവ് ഫീഡ്ബാക്കിന് വേണ്ടി ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിശ്ചയിക്കുന്നതിനായുള്ള ഘട്ടങ്ങൾ ഇതൊക്കെയാണ് ആദ്യം ഓപ് ആമ്പിനെ നീക്കംചെയ്യുക എന്നിട്ട് അതിൻറെ ഔട്ട്പുട്ടിനെ ഒരു സ്വതന്ത്ര വോൾട്ടേജ് ഉറവിടമായ VTEST ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുക VTEST ഒഴികെയുള്ള എല്ലാ സ്വതന്ത്ര ഉറവിടങ്ങളും ശൂന്യം ആക്കുക അതിനുശേഷം ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് VAB കണ്ടുപിടിക്കുക അത് VAB α VTEST എന്ന രൂപത്തിൽ ആയിരിക്കും അതായത് ഇത് VTEST ന് അനുപാതികമായിരിക്കും α പൂജ്യത്തിനെക്കാൾ വലുതാണെങ്കിൽ A ഓപ് ആമ്പിൻറെ നെഗറ്റീവ് ടെർമിനലും B ഓപ് ആമ്പിൻറെ പോസിറ്റീവ് ടെർമിനലും ആയിരിക്കും പകരം α പൂജ്യത്തിനെക്കാൾ ചെറുതാണെങ്കിൽ A ഓപ് ആമ്പിൻറെ പോസിറ്റീവ് ടെർമിനലും B ഓപ് ആമ്പിൻറെ നെഗറ്റീവ് ടെർമിനലും ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം α പൂജ്യം ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് α പൂജ്യം ആവുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഓപ് ആമ്പിന് ചുറ്റും യാതൊരു ഫീഡ്ബാക്കും ഇല്ല എന്നാണ് α എന്താണെന്ന് ഓർക്കുക ഓപ് ആമ്പിൻറെ ഇൻപുട്ട് വോൾട്ടേജ് α x VTEST ആണ് VTEST ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ α പൂജ്യം ആവുകയാണെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ഓപ് ആമ്പിൻറെ ഔട്ട്പുട്ടിൻറെ യാതൊരു ഭാഗവും ഇൻപുട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് അതായത് ഓപ് ആമ്പ് ഒരിക്കലും ഫീഡ്ബാക്കിൽ അല്ല എന്നാണ് അങ്ങനെ ഒരു സർക്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന് വേണ്ടിയുള്ള ഓപ് ആമ്പിൻറെ ചിഹ്നങ്ങൾ നിർണ്ണയിക്കുന്നത്